തുല്യമായ വോൾടേജ് കറന്റ് എന്നിവയെക്കുറിച്ച് കഴിഞ്ഞ ലെക്ചറിൽ നിർവചിച്ചു കഴിഞ്ഞതിനാൽ നമുക്ക് ഇനി സ്കേറ്ററിങ് പാരാമീറ്റർ Scattering Parameter എന്താണെന്ന് നോക്കാം ഇനി രണ്ടാമത്തെ ടൂൾ പോർട്ടുകളിൽ നാം പവർ എത്രയെന്നു അളക്കുന്നുണ്ട് എന്തെന്നാൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ പോർട്ടുകളിൽ പവർ അളന്നു നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മറ്റു പോയിന്റുകളിൽ അവ വ്യത്യസ്തമായിരിക്കും അത് അളക്കുവാനായി 2 പോർട്ട് നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ മറ്റു പ്രധാന ലീനിയർ നെറ്റ്വർക്കിൽ നമുക്ക് Z മാട്രിക്സ് അല്ലെങ്കിൽ Y മാട്രിക്സ് നിർവചിക്കാനാകും അങ്ങനെ Z മാട്രിക്സ് അല്ലെങ്കിൽ Y മാട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോർട്ടുകൾ എല്ലാം തന്നെ കൃത്യമായി ടെർമിനേറ്റ് ചെയ്തിരിക്കണം പിന്നെ വോൾടേജ് അല്ലെങ്കിൽ കറന്റ് എത്രയെന്നും കണ്ടെത്തണം വോൾടേജ് അല്ലെങ്കിൽ കറന്റ് എന്നത് ഉയർന്ന ഫ്രീക്വൻസിയിൽ ആണ് നാം ഉപയോഗിക്കുന്ന മെക്കാനിസം വേവിലൂടെ അതായത് ഇൻസിഡന്റ് അല്ലെങ്കിൽ റിഫ്ലെക്ടഡ് വേവിലൂടെ ആയതിനാൽ ആ വോൾട്ടേജും കറന്റും ഇൻസിഡന്റ് അല്ലെങ്കിൽ റിഫ്ലെക്ടഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റുകളുടെ തുകയാണ് അതിനാൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ വോൾടേജ് അളക്കുന്നത് പവറിൽ നിന്നാണ് അത് ഒരു അടിസ്ഥാന അളവാണ് നാം അളവ് കൊണ്ടുവരുമ്പോൾ നാം പറയുന്നത് പവർ അളക്കൽ എന്നത് മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ അടിസ്ഥാനമായ കാര്യമാണ് എന്നാണ് അപ്പോൾ ഈ പവറിൽ നിന്നും നമുക്ക് തുല്യമായ വോൾടേജ് കണ്ടെത്താനാകുന്നതാണ് ഇനി നാം ഉയർന്ന ഫ്രീക്വൻസിയിൽ പവർ അളക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക ഇവിടെ പവർ എന്നത് ഒന്നുകിൽ ഇൻസിഡന്റ് വേവ് അല്ലെങ്കിൽ റിഫ്ലെക്ടഡ് വേവ് അതും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് വേവ് എന്നിവയിലൂടെ ആകും ഒഴുകുക ഓർക്കേണ്ട കാര്യം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ എന്നത് വോൾട്ടേജിനു ബാധകമാണ് പക്ഷെ പവറിനു അത് ഉപയോഗിക്കാൻ പറ്റില്ല അതിനാൽ തന്നെ ഇൻസിഡന്റ് പവർ റിഫ്ലെക്ടഡ് പവർ എന്നത് ആകെ പവർ ആണെന്ന് നമുക്ക് പറയാനാകില്ല അത് കൃത്യമായ സൂപ്പർ പൊസിഷൻ അല്ല അതായതു സൂപ്പർ പൊസിഷൻ എന്നത് വോൾട്ടേജിനു വേണ്ടി ഉപയോഗിക്കാം എന്നാൽ പവറിനു ഉപയോഗിക്കാനാകില്ല അപ്പോൾ ആകെയുള്ള പവർ അളക്കുക എന്നത് പ്രയാസമാണ് അതിനാലാണ് മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ആകെ അളവുകൾ അളക്കുക എന്നത് പ്രയാസമാകുന്നത് എന്നാൽ ഇൻസിഡന്റ് വേവ് അല്ലെങ്കിൽ റിഫ്ലെക്ടഡ് വേവ് എന്നിങ്ങനെ തര൦ തിരിക്കുക എന്നത് സാധ്യമാണ് അത് നാം ഈ കോഴ്സിന്റെ അവസാന ഭാഗത്തു നോക്കുന്നതാണ് അതായതു ഇൻസിഡന്റ് പവർ റിഫ്ലെക്ടഡ് പവർ പിന്നെ ട്രാൻസ്മിറ്റഡ് പവർ എന്നിങ്ങനെ തരം തിരിക്കാനുള്ള ഉപകരണം ലഭ്യമാണ് അതാണ് ഡയറക്ഷണൽ കപ്ലർ അതുകൊണ്ടാണ് ഒരു വേവിന്റെ ആകെ പവർ നമുക്ക് അളക്കാൻ പറ്റാത്തത് അത് നമുക്ക് ഇൻസിഡന്റ് വേവ് അല്ലെങ്കിൽ റിഫ്ലെക്ടഡ് വേവിന്റെ രൂപത്തിൽ കണക്കു കൂട്ടേണ്ടിയിരിക്കുന്നു വോൾടേജ് ഈ പവറിൽ നിന്നും അളക്കേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ ആകെ വോൾട്ടേജും മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ അളക്കാനാകില്ല എന്നാൽ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ അത് സാധ്യമാണ് അപ്പോൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ആകെ വോൾടേജ് ആകെ കറന്റ് എന്നിവയെ പറ്റി പറയുന്നതിൽ അർത്ഥമില്ല നമുക്ക് പറയേണ്ടത് ഇവിടെ ഇൻസിഡന്റ് വോൾടേജ് എത്രയാണ് റിഫ്ലെക്ടഡ് വോൾടേജ് എത്രയാണ് ട്രാൻസ്മിറ്റഡ് വോൾടേജ് എത്രയാണ് എന്നിങ്ങനെയാണ് അതിനാലാണ് ഒരു മൈക്രോവേവ് നെറ്റ്വർക്കിനെ Z Y എന്നിങ്ങനെ പറയാനാകാത്തത് Z Y h a b c d എന്നിവ പരോക്ഷമായ രൂപത്തിൽ നമുക്കു കണ്ടെത്താനാകും എന്നാൽ ഈ പരാമീറ്ററുകൾ നമുക്ക് അളക്കണമെങ്കിൽ നമുക്ക് വേവ് അളവുകൾ വേറിട്ട് അളക്കേണ്ടതുണ്ട് അതിനാലാണ് ഇവിടെ നമുക്ക് പുതിയതായി 2 പോർട്ട് പാരാമീറ്റർ ആവശ്യമായി വന്നത് അതാണ് സ്കാറ്ററിങ് പാരാമീറ്റർ അപ്പോൾ ഈ സ്കാറ്ററിങ് പാരാമീറ്റർ നെറ്റ്വർക്കിനെ പ്രതിനിധീനിക്കരിക്കുന്നതു വോൾട്ടേജിന്റെയോ കറന്റിന്റെയോ രൂപത്തിലല്ല അത് ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് പിന്നെ ട്രാൻസ്മിറ്റഡ് വോൾടേജ് വേവിന്റെ രൂപത്തിൽ ആണ് അതുകൊണ്ടാണ് അളക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ S പാരാമീറ്റർ എന്നത് പ്രസിദ്ധമാകുന്നത് എന്നാൽ Z Y മുതലായ പരാമീറ്ററുകൾ ആക്റ്റീവ് ഡിവൈസിനു ഉദാഹരണത്തിന് ട്രാൻസിസ്റ്റർനു ബാധകമാണ് കാസ്കേഡ് ചെയ്യുമ്പോൾ a b c d യും പ്രസിദ്ധമാണ് ഇനി മറ്റു ZY പരാമീറ്ററുകൾ പോലെ S പാരാമീറ്റർ എന്നതും മൈക്രോവേവ് നെറ്റ്വർക്കിനെ പൂർണമായും വിശേഷിപ്പിക്കുന്നു ഡയറക്ഷണൽ കപ്ലർ ആധാരമാക്കിയുള്ള നെറ്റ്വർക്ക് അനലൈസർ എന്ന ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ഇൻസിഡന്റ് റിഫ്ലെക്ടഡ് പിന്നെ ട്രാൻസ്മിറ്റഡ് വോൾടേജ് വേവ് എന്നിവ വേർതിരിക്കാനും അളക്കാനും സാധിക്കും ഇനി വരുന്ന ലെക്ച്ചറിൽ ഈ നെറ്റ്വർക്ക് അനലൈസർ എന്ന ഉപകരണം നാം കാണുന്നതാണ് അതോടൊപ്പം ഈ S പാരാമീറ്റർ നാം മാത്തമറ്റിക്കൽ ആയി Z Y a b c d എന്നീ പരാമീറ്ററുകളുടെ രൂപത്തിൽ പ്രതിപാദിക്കുന്നതുമാണ് അങ്ങനെ നമുക്ക് ഒരു മൈക്രോവേവ് നെറ്റ്വർക്കിനെ Z a b c d എന്നീ പരാമീറ്ററുകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും പിന്നെ കൈമാറ്റം ചെയ്യാനും സാധിക്കുന്നതുമാണ് S പരാമീറ്ററിന്റെ ആവശ്യം എന്താണെന്നു വച്ചാൽ മൈക്രോവേവ് നെറ്റ്വർക്കിൽ ആദ്യം നാം S പാരാമീറ്റർ ആണ് ആദ്യം അളക്കുക അതിൽ നിന്നും മറ്റു 2 പോർട്ട് പരാമീറ്ററുകൾ കൺവെർട് ചെയ്തു എടുക്കുകയാണ് അതിനാൽ തന്നെ ഏതു വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാൽ S പരാമീറ്ററിന്റെ പ്രസിദ്ധി കാരണം അതാണ് മൈക്രോവേവ് എഞ്ചിനീയർ രണ്ടാമത്തെ ടൂൾ ആയി ഉപയോഗിക്കുക നമുക്ക് പൊതുവായി ഒരു N പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെന്നു കരുതാം ഇത് ഒരു പോർട്ട് നെറ്റ്വർക്ക് ആണ് ഇവിടെ നിങ്ങൾക്കു ഒന്നാമത്തെ പോർട്ട് കാണാം ഇതാണ് N പോർട്ട് അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ആകെ N എണ്ണം പോർട്ടുകൾ ആണ് ഉള്ളത് എന്ന് ഇതാണ് അവസാനത്തെ പോർട്ട് അതിനാലാണ് ഇത് N പോർട്ട് നെറ്റ്വർക്ക് ആകുന്നത് ഇവിടെ ഓരോ പോർട്ടിലും ഒരു ഇൻസിഡന്റ് വേവ് ഉണ്ട് അത് പുറത്തു നിന്നും ഈ പോർട്ടിലേക്കു പ്രവേശിക്കുകയാണ് ഇനി നെറ്റ്വർക്കിൽ സംഭവിക്കുന്ന പല സംഭവങ്ങൾ കാരണം ഇവിടെ ഒരു റിഫ്ലെക്ടഡ് വേവ് കൂടെ ഉണ്ട് ഇവിടെ റിഫ്ലെക്ടഡ് വോൾടേജ് വേവ് എന്നത് ആണ് പിന്നെ ഇൻസിഡന്റ് എന്നത് ആണ് അതുപോലെ നമുക്ക് പറയാം എന്നത് പോർട്ട് 2 ലേക്ക് കടക്കുന്ന വേവ് ആണ് അതുപോലെ എന്നത് പുറത്തേക്കും നമുക്ക് അത് അങ്ങനെ പ്രതിനിധീകരിക്കാം എന്തെന്നാൽ ഇതൊരു ലീനിയർ നെറ്റ്വർക്ക് ആണ് അപ്പോൾ എന്താണ് ഈ ഇവിടെ പ്രതിഫലിക്കുന്നത് എന്താണ് ഈ വരുന്നു എന്ന് കരുതുക ഇവിടെ ഉള്ള ഇമ്പിഡൻസ് കാരണം ഇതിന്റെ കുറച്ചു ഭാഗം തിരികെ വരുന്നു അത് പോലെ ഈ എടുക്കുകയാണെങ്കിലും കുറച്ചു ഭാഗം അതുപോലെ തിരികെ വരുന്നു അതും ഈ ൽ സംഭാവന ചെയ്യുന്നുണ്ട് അതുപോലെ പോർട്ട് 3 ൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതും ഇവിടെ പ്രതിഫലിക്കും അതിനാലാണ് എന്നത് മറ്റു പോർട്ടുകളിലെ ഇൻസിഡന്റ് വോൾട്ടേജുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതുന്നത് അത് താഴെ പറയുന്നത് പോലെ ആണ് അതിനാൽ പോർട്ട് 1 ൽ പ്രതിഫലിച്ച വേവ് എന്നത് മറ്റു പോർട്ടുകളിലെ ഇൻസിഡന്റ് വോൾട്ടാജുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതാം അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റു പോർട്ടുകളിലെ റിഫ്ലെക്ടഡ് വോൾടേജ് വെക്റ്റർ എന്നത് ഈ n x n സ്ക്വയർ മാട്രിക്സ് എന്ന രൂപത്തിൽ എഴുതാം ഇവിടെ നിങ്ങൾക്കു മറ്റൊരു N നീളമുള്ള വെക്റ്റർ ഉണ്ട് ഇതാണ് S മാട്രിക്സ് ഇത് തന്നെ നാം മാട്രിക്സ് രൂപത്തിൽ എഴുതിയാൽ

ഇനി ഞാൻ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു N പോർട്ട് നെറ്റ്വർക്കിൽ എത്ര S പാരാമീറ്റർ ഉണ്ട് എന്നാണ് ഇത് N x N മാട്രിക്സ് ആയതിനാൽ ആകെ N2 S പരാമീറ്ററുകൾ ആണ് ഉള്ളത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പറയാം ആണ് കണ്ടെത്തേണ്ടത് ഈ എന്നത് ഇപ്പോൾ തത്കാലം ആണ് എന്ന് കരുതുക അതിനായി നമുക്ക് ആണ് കണ്ടെത്തേണ്ടത് അത് എങ്ങനെ ചെയ്യും ഇപ്പോൾ ഞാൻ ഈ പിന്നെ അങ്ങനെ എല്ലാം തന്നെ 0 ആക്കി മാറ്റുന്നു അപ്പോൾ 1 മാത്രമാണ് ഇവിടെ എക്സൈറ്റ് ചെയ്യുന്നത് മറ്റുള്ളവ എല്ലാം തന്നെ റിഫ്ലക്ഷൻ ശേഖരിക്കുകയാണ് അതിനാൽ നമുക്ക് പറയാൻ സാധിക്കും യിൽ എക്സൈറ്റഷൻ കൊടുക്കുക j പോർട്ടിലും അതായതു രണ്ടാമത്തെ സബ്സ്ക്രിപ്റ്റ്ലും പിന്നെ റിഫ്ലക്ഷൻ ശേഖരിക്കുന്നത് i ലും ആണ് J ഒഴികെ മറ്റെല്ലാ പോർട്ടിലെ എക്സൈറ്റഷനും നാം 0 ആക്കി വെക്കും അപ്പോൾ മറ്റു പോർട്ടുകളിലെ എക്സൈറ്റഷൻ എങ്ങനെ 0 ആക്കും അതിനെയാണ് മാച്ച് ടെർമിനേറ്റ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു പോർട്ടിനെ മാച്ച് ടെർമിനേറ്റ് ചെയ്താൽ എനിക്ക് പിന്നെ ആ പോർട്ടിൽ ഇൻസിഡന്റ് വേവ് കൊടുക്കാനാകില്ല ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ പോർട്ട് j യിലേക്ക് എന്ന ഇൻസിഡന്റ് വേവ് കൊടുക്കുക ഇതിനെ മാച്ച് ടെർമിനേറ്റ് ചെയ്യരുത് എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കു ഈ കൊടുക്കാനാകില്ല മറ്റെല്ലാ പോർട്ടുകളും മാച്ച് ടെർമിനേറ്റ് ചെയ്യുക ഈ മാച്ച് ടെർമിനേറ്റ് ചെയ്യുക എന്നതിന്റെ അർഥം മറ്റു പോർട്ട് കളിലെ ഇൻസിഡന്റ് വേവ് 0 ആക്കുക എന്നതാണ് പിന്നെ പോർട്ട് i ലെ റിഫ്ലെക്ടഡ് വോൾടേജ് അളക്കുക അങ്ങനെ നമുക്ക് ഇവിടെ S പാരാമീറ്റർ കണ്ടെത്താനാകും അങ്ങനെ ഈ അളക്കളിൽ നാം ഇൻസിഡന്റ് പോർട്ട് ഒഴികെ മറ്റു പോർട്ടുകൾ മാച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു എന്നിട്ടു നിശ്ചിത പോർട്ടിൽ പ്രതിഫലനം അളന്നു നോക്കുന്നു ഇപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് നാം S പാരാമീറ്റർ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ഇവിടെ അത് ചുരുക്കി പറയാൻ പോകുകയാണ് നമുക്ക് H Y Z എന്നിങ്ങനെ പരാമീറ്ററുകൾ ഉണ്ട് ഇവിടെ h അത് ഹൈബ്രിഡ് പാരാമീറ്റർ ആണ് ഉയർന്ന ഫ്രീക്വെൻസിയിൽ ആകെ വോൾടേജ് പിന്നെ കറന്റ് എന്നത് ഇവിടെ അളക്കുക പ്രയാസമാണ് അത് എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കുന്നു ഇവിടെ ആക്റ്റീവ് ഡിവൈസുകൾ ഓപ്പൺ അല്ലെങ്കിൽ ഷോർട് ആയി സ്വയം നശിക്കാൻ സാധ്യത ഉണ്ട് മറ്റു H Y Z പരാമീറ്ററുകളുടെ കാര്യത്തിൽ ആകെ വോൾടേജ് അല്ലെങ്കിൽ കറന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു പ്രത്യേക പോർട്ട് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ഷോർട് ചെയ്യണം എന്നാൽ ഉയർന്ന ഫ്രീക്വൻസിയിൽ ആക്റ്റീവ് ഡിവൈസുകൾ ഓസിലേറ്റ് ചെയ്തെന്നു വരാം അപ്പോൾ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഷോർട് ചെയ്യുക എന്നത് ഡിവൈസിനു അപകടകരമാണ് അതുകൊണ്ടു തന്നെ ആണ് ട്രാൻസിസ്റ്റർ വിശദീകരിക്കാനായി Y Z പരാമീറ്ററുകൾ ഉപയോഗിക്കാത്തത് എന്നാൽ S പരാമീറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് പരിചയമുള്ള അളവുകൾ ആണ് എടുക്കുക ഉദാഹരണത്തിന് ഗൈൻ വോൾടേജ് ഗൈൻ പവർ ഗൈൻ അങ്ങനെ പലതും അതുപോലെ ലോസ് കൂടെ നോക്കുന്നതാണ് ഉദാഹരണം റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് S പരാമീറ്ററിൽ നിന്നും എത്ര റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് എന്നത് എളുപ്പത്തിൽ കണ്ടെത്താനാകും പല ഉപകരണങ്ങൾ കാസ്കേഡ് ചെയ്തിട്ടുള്ള കണക്ഷനിൽ S പാരാമീറ്റർ അളക്കുക എന്നതും എളുപ്പമാണ് CAD പ്രോഗ്രാം വഴി നമുക്ക് വേണ്ട റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് എന്നിവ കണ്ടെത്തുന്നതും വളരെ സൌകര്യപ്രദമായ കാര്യമാണ് ഇനി മൂന്നാമത്തെ ടൂൾ ആയ ഫ്ലോ ഗ്രാഫ് അപഗ്രഥനം ഉപയോഗിച്ചും നിങ്ങൾക്കു ഈ പരാമീറ്ററുകളുടെ പരസ്പര ബന്ധം കണ്ടെത്താം വേണമെങ്കിൽ h പാരാമീറ്റർ Z പാരാമീറ്റർ Y പാരാമീറ്റർ അല്ലെങ്കിൽ a b c d പാരാമീറ്റർ എന്നിവയും S പരാമീറ്ററിൽ നിന്നും കണ്ടെത്താനാകും ഇവിടെ നിങ്ങൾക്കു കാണാം ചില ഇൻസിഡന്റ് വേവ് റിഫ്ലക്ഷൻ നൽകുന്നതാണ്അപ്പോൾ അതിനെ എന്ന് പ്രതിനിധീകരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെ മാച്ച് ടെർമിനേറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ നാം അളന്നു നോക്കുമ്പോൾ മനസ്സിലാകും നാം മുമ്പ് പറഞ്ഞത് പോലെ ഈ അനുപാതങ്ങൾ ഈ പോർട്ട് 2 ലും എഴുതിയിട്ടുണ്ട് ഇനി S പാരാമീറ്റർ കണ്ടെത്തുക എന്നത് ഇതിനെ 2 പോർട്ടിലേക്കു കൊണ്ടുവരിക എന്നതാണ് അപ്പോൾ എന്ന രണ്ടാമത്തെ പോർട്ട് ഇവിടെ മാച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു പിന്നെ എന്ന അനുപാതം കണ്ടെത്തുന്നു നമ്മുടെ രീതിയിൽ പറയുമ്പോൾ അതുപോലെ രണ്ടാമത്തെ പോർട്ടിനെ എക്സൈറ്റ് ചെയ്തു ആദ്യത്തെ പോർട്ടിനെ മാച്ച് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മറ്റു രണ്ടെണ്ണം കിട്ടും അതായതു പിന്നെ അതാണ് ഇവിടെ പറയുന്നത് അതായതു നിങ്ങൾക്കു ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെന്നു കരുതുക അതിനെ നാം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിവൈസ് എന്ന് പറയുന്നു കേസ് 1 ൽ നാം എന്ന് കൊടുക്കുന്നു അതിന്റെ അർഥം ആദ്യത്തേതിനെ മാച്ച് ടെർമിനേറ്റ് ചെയ്യുക പിന്നെ ഈ അളവുകൾ കണ്ടെത്തുക എന്നതാണ് അതിനു ശേഷം ഇതിനെ നേരെ തിരിക്കുക എക്സൈറ്റഷൻ രണ്ടാമത്തെ പോർട്ടിൽ കൊടുക്കുക മാച്ച് ടെർമിനേറ്റ് ഇവിടെയും അപ്പോൾ നിങ്ങൾക്കു S പാരാമീറ്റർ അളക്കാനാകും ഇതാണ് ഡിവൈസ് നെറ്റ്വർക്ക് അനലൈസർ അതിനു ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ S പാരാമീറ്റർ അളക്കാനാകും അത് മാത്രമല്ല അത് 2 പോർട്ട് 4 പോർട്ട് അങ്ങനെ പല രീതിയിൽ ലഭ്യമാണ് തീർച്ചയായും ഒരു 4 പോർട്ട് എന്നത് വിലകൂടിയ നെറ്റ്വർക്ക് അനലൈസർ ആണ് എന്നാൽ ഇപ്പോൾ അതിന്റെ വില കുറഞ്ഞു വരികയാണ് ഇത് എൺപതുകളിൽ ആണ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ലാബിൽ ഇത് കണ്ടെത്താൻ സാധ്യത ഉണ്ട് ഇത് ഒരു ആധുനിക നെറ്റ്വർക്ക് അനലൈസർ ആണ് അതിൽ ഒരു വലിയ ഡിസ്പ്ലേ ഭാഗം ഉണ്ട് അതിനു ശേഷം പോർട്ട് നോക്കുക ഇതിൽ 2 പോർട്ട് ഉണ്ട് ഇത് പോർട്ട് 1 മറ്റേ പോർട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കു മറ്റുള്ളവ കണക്ട് ചെയ്യാം ഇവിടെ ഒരു ന്യൂമെറിക് കീപാഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു നോബും അത് ഉപയോഗിച്ച് അനലോഗ് രീതിയിൽ വാല്യൂ മാറ്റാനാകും പിന്നെ പല തര൦ ബട്ടണുകൾ ഈ ബട്ടണുകൾ പ്രസ് ചെയ്തു ഇത് നിങ്ങൾക്കു അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നെറ്റ്വർക്ക് അനലൈസർ ഇതിൽ നിങ്ങൾക്കു നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം ഇത് ഒരു പോർട്ട് പിന്നെ ഇത് മറ്റൊരു പോർട്ട് ഇതിലൂടെ നിങ്ങൾക്കു ഡിവൈസ് കണക്ട് ചെയ്യാം ഇതാണ് ഈ നെറ്റ്വർക്ക് അനലൈസറിൻറെ അടുത്തുള്ള കാഴ്ച നിങ്ങൾക്കു മാറ്റാനാകുന്ന ഫ്രീക്വൻസികൾ ഇവിടെ കാണാം പിന്നെ ഇവിടെ പോർട്ടുകൾ അങ്ങനെ പലതും അതെല്ലാം നാം പിന്നീട് അത് മാത്രമായി പഠിക്കുമ്പോൾ നോക്കുന്നതാണ് ഇവിടെ ഒരു അളക്കാനുള്ള ഫങ്ക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കു വേണ്ട മുതലായ അളവുകൾ ഇവിടെ കൊടുക്കാനാകുന്നതാണ് ഇവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട് ഈ ഫോർമാറ്റ് എന്നത് ഈ ഡിസ്പ്ലേ എങ്ങനെ കാണണം എന്നതാണ് അതായത് നിങ്ങൾക്കു വേണ്ടത് ഒരു സ്മിത്ത് ചാർട്ട് ആണോ അതോ പോളാർ പ്ലോട്ട് ആണോ അതും അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലോട്ട് ആണോ എന്ന് നിർണയിക്കുന്നു ഏതു സ്കെയിൽ ആണ് വേണ്ടത് എന്ന് ഇവിടെ തിരഞ്ഞെടുക്കുക ലോഗ് സ്കെയിൽ വേണോ അതോ dB സ്കെയിൽ വേണോ അങ്ങനെ പലതും അതിനു ശേഷം ആവറേജിങ് വരുന്നു ഈ ആവറേജിങ് എന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു നോയിസിന്റെ സാനിധ്യത്തിൽ ആണ് അളക്കുന്നത് ഈ അളക്കൽ നിങ്ങൾ പലതവണ ആവർത്തിക്കുന്നു എന്നിട്ടു ഈ അളവുകളുടെ ശരാശരി എടുക്കുന്നു എന്നു കരുതുക നിങ്ങളുടെ SNR മെച്ചപ്പെടുന്നതായിരിക്കും എന്തെന്നാൽ ഈ സിഗ്നൽ എന്നത് നിർണായകമായ കാര്യമാണ് ഇപ്പോൾ സിഗ്നൽ എന്നത് 5 ആണെന്ന് കരുതുക അപ്പോൾ ഈ 5V തന്നെ ഞാൻ പല തവണ എടുക്കുന്നു എന്നിട്ടു ഇതിന്റെ ശരാശരി എടുക്കുമ്പോൾ ഏകദേശം ഒരേ കാര്യം തന്നെ കിട്ടുന്നു പക്ഷെ നോയ്സ് എന്നത് റാൻഡം ആണ് അപ്പോൾ ഒരുപാടു നോയ്സുകൾ ഞാൻ എടുക്കുമ്പോൾ അവയുടെ ശരാശരി എന്നത് നോയിസിന്റെ മീൻ ആയിരിക്കും എന്ന് പറയാം പൊതുവെ നമ്മുടെ വൈബ്രേഷൻ നോയ്സ് മീൻ എന്നത് 0 ആയിരിക്കും അപ്പോൾ ആവറേജിങ് വഴി നോയ്സ് കുറയുന്നു അതിനാലാണ് നെറ്റ്വർക്ക് അനലൈസർ പലതരത്തിലുള്ള ആവറേജിങ് തരുന്നത് സ്വാഭാവികമായി ഒരു അസ്സൈന്മെന്റ് തന്നെ 1024 തവണ ചെയ്യുന്നുണ്ട് അത് അളക്കുന്നതിലെ കൃത്യത കൂട്ടുവാൻ സഹായിക്കുന്നു അപ്പോൾ ഈ നെറ്റ്വർക്ക് അനലൈസറിനു കാലിബറേഷൻ ആവശ്യമാണ് നമ്മൾ ഈ കാലിബറേഷൻ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള എറർ സാധ്യതയും കുറയ്ക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ സ്വഭാവമെന്തെന്നു അറിയണമെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് പല രീതിയിൽ മാറ്റി നോക്കേണ്ടതാണ് നിങ്ങൾക്കു സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിവ സെലക്ട് ചെയ്യാനാകുന്നതാണ് അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്കു ഇവിടെ സ്വീപ് ചെയ്യാം സ്വീപ് എന്നത് ഈ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഒരു ട്രിഗർ കൊടുക്കാവുന്നതാണ് എന്നിട്ടു ഒരു മാർക്കർ കൊടുക്കാം അപ്പോൾ കൃത്യമായ അളവുകൾ തനിയെ തന്നെ വരുന്നതാണ് അവയാണ് മാർക്കറുകൾ ഈ ഉപകരണം സെറ്റ് ആക്കിയാൽ പിന്നെ അതിലെ സ്റ്റേറ്റ് നിങ്ങൾക്കു സ്റ്റോർ ചെയ്യാവുന്നതാണ് പിന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് ഇതിൽ സെറ്റ് ചെയാം ഇതാണ് നാവിഗേഷൻ അതിന്റെ അർഥം ഇവിടെ പല വാല്യൂ നിങ്ങൾക്കു മാറ്റാനാകും എന്നാണ് അത് പോലെ എന്തും ഇവിടെ കാണാം ഇവിടെ ഒരു റീ കാൾ ബട്ടൺ ഉണ്ട് അതായതു മുമ്പ് എടുത്ത അളവുകൾ ഇവിടെ വീണ്ടും കാണാം ഇതാണ് നെറ്റ്വർക്ക് അനലൈസർ ഇനി ഈ മൈക്രോവേവിലേക്കു തിരിച്ചു വരാം ഇവിടെ ഒരു ഇണ്ടക്ടർ കാണാനാകും ഈ ഇണ്ടക്ടർ ഉണ്ടാക്കിയത് ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡ് ഉപയോഗിച്ചാണ് ഇവിടെ ഒരു ഡയഫ്ര൦ ഉണ്ട് അതിൽ ഈ സ്ഥാനങ്ങൾ ലോഹമാണ് അപ്പോൾ ഈ മുഴുവൻ ഭാഗവും ഓപ്പൺ ആണ് അപ്പോൾ പല ചോദ്യങ്ങൾ ഇവിടെ വരാം ഇത് ഒരു ഇൻഡക്റ്റീവ് ഡയഫ്ര൦ ആണ് ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണ് ഉള്ളത് എന്നാൽ ഇവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് ഇതാണ് ക്യാപസിറ്റിവ് ഡയഫ്ര൦ അപ്പോൾ ഈ വേവ് ഗൈഡ് ഉപയോഗിച്ച് കപ്പാസിറ്റർ നമുക്ക് നിർമിക്കാനാകും ഇതൊരു LC സർക്യൂട് ആണ് ഇവിടെ n സ്റ്റെപ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് ഈ വേവ് ഗൈഡിന്റെ വെർട്ടിക്കൽ സൈഡിൽ ഒരു സ്റ്റെപ് ഉണ്ട് ഇത് വീണ്ടും ഒരു ക്യാപസിറ്റന്സ് ആണ് അപ്പോൾ ഒരു ഡയഫ്ര൦ വഴി ആണെങ്കിലും ഒരു സ്റ്റെപ് വഴി ആണെങ്കിലും കപ്പാസിറ്റർ ഉണ്ടാക്കാനാകും അതുപോലെ h പ്ലെയിൻ സ്റ്റെപ് ഇവിടെ വേവ് ഗൈഡ് ഡയമെൻഷൻ മാറുന്നതാണ് അത് ഇണ്ടക്ടൻസ് പോലെ ആണ് അപ്പോൾ ഇണ്ടക്ടർ ഉണ്ടാക്കാനായി ഈ പറഞ്ഞ h പ്ലെയിൻ സ്റ്റെപ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡയഫ്ര൦ ഞാൻ ഇത് കാണിക്കുന്നതെന്തെന്നു വച്ചാൽ ഇതെല്ലാം തന്നെ ഡിസ്കണ്ടിന്യൂറ്റി ആണ് നാം പറഞ്ഞത് പോലെ പല ഉയർന്ന മോഡുകൾ ഇവിടെ വരാം എന്നാൽ ആകെ ഫലത്തിൽ ഇതൊരു LC ഉയർന്ന ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നതിനു തുല്യമാണ് നമുക്ക് LC നേരെ നിർമിക്കാൻ സാധ്യമല്ല പക്ഷെ ഇങ്ങനെയാണ് ഉയർന്ന ഫ്രീക്വൻസിയിൽ നാം LC നിർമിക്കുക അവയുടെ S പാരാമീറ്റർ നമുക്ക് നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് അളന്നു നോക്കാനാകും അപ്പോൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഉള്ള തുല്യത എന്തെന്ന് ഒരു ഏകദേശ ഐഡിയ കിട്ടിയല്ലോ നാം സാധാരണ എലമെന്റ് അല്ല ഡിസ്ട്രിബ്യുട്ടഡ് എലമെന്റ് ആണ് ഉപയോഗിക്കുക വേവ് ഗൈഡ് പോലെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന മൈക്രോ സ്ട്രിപ്പ് ടെക്നോളജി മൈക്രോ സ്ട്രിപ്പ് എന്നാൽ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട് അതിനു മുകളിൽ മെറ്റലൈസേഷൻ ഉണ്ട് അപ്പോൾ ഈ മൈക്രോ സ്ട്രിപ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്നതും സെയിം ആണ് ഇവിടെയും നമുക്ക് LC ഉണ്ടാക്കാനാകും അപ്പോൾ നിങ്ങൾക്കു ഒരു സിംഗിൾ മൈക്രോ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും ഇവിടെ വരുന്നതാണ് എന്നാൽ ഇവിടെ നാം ഒരു ഗ്യാപ് കൊടുക്കുന്നു അതായത് ഒരു C നിർമിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ഒരു LC നെറ്റ്വർക്ക് ആണ് എന്ന് പറയാം ഇതൊരു T നെറ്റ്വർക്ക് ആണ് ഇവിടെ രണ്ടു L ആം ഉണ്ട് പിന്നെ ഒരു C അതുപോലെ തന്നെ ഒരു കോ ആക്സിയൽ മൈക്രോ സ്ട്രിപ്പ് ലൈൻ ഇതും ഒരു LC നെറ്റ്വർക്ക് തരുന്നതാണ് ഇതൊരു ഡിസ്കണ്ടിന്യുസ് മൈക്രോ സ്ട്രിപ്പ് ലൈൻ ആണ് അതും നമുക്ക് മോഡൽ ചെയ്യാനാകും ഇനി S പരാമീറ്ററിലൂടെ ഇത് നിങ്ങൾക്കു മോഡൽ ചെയ്യാം ഇതെല്ലാം തന്നെ തിയറിയിലൂടെ കണ്ടെത്തുന്ന രീതികൾ ആണ് എന്നാൽ നെറ്റ്വർക്ക് അനലൈസർ വഴിയും കണ്ടെത്താം ഇത് കാണിക്കുന്നതെന്താണെന്നു വച്ചാൽ ഇമ്പിഡൻസ് അളക്കുന്നതിനു ഇത് ആവശ്യമാണ് അപ്പോൾ ഒരു കപ്പാസിറ്റർ ആണ് ലോഡ് ആക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കു മൈക്രോ സ്ട്രിപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്യാപസിറ്റിവ് ഡയഫ്ര൦ ഉപയോഗിക്കാം അപ്പോൾ സ്റ്റുഡന്റിനു ഇൻഡക്റ്റീവ് ഡയഫ്ര൦ നൽകുക എന്നിട്ടു ലോഡ് കണ്ടെത്താൻ പറയുക ഈ അളക്കൽ വഴി അത് സാധ്യമാണ് രണ്ടാമത്തെ ടൂൾ അതായതു സ്കേറ്ററിങ് പാരാമീറ്റർ ആണ് നാം ഇപ്പോൾ കണ്ടത് അടുത്ത ലെക്ച്ചറിൽ നാം പല നെറ്റ്വർക്കിന്റെ സ്കേറ്ററിങ് പാരാമീറ്റർ